നിമിഷങ്ങളുടെ രീതിയെക്കുറിച്ചുള്ള ഈ മൊഡ്യൂളുമായി നമ്മൾ തുടരും കൂടാതെ ഈ നിമിഷങ്ങളുടെ രീതി ഉപരിതല ഇന്റഗ്രൽ സമവാക്യങ്ങളിൽ പ്രയോഗിക്കുന്ന അടുത്ത വിഭാഗത്തിലേക്ക് നോക്കും അതിനാൽ നമ്മൾ വീണ്ടും ഒരു ചെറിയ പുനരവലോകനം നടത്തും ഇത് രണ്ട് ബോഡി 2 വോളിയം പ്രശ്നമാണെന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ എന്റെ കയ്യിൽ ചില ചിതറിക്കിടക്കുന്ന വസ്തു ഉണ്ടായിരുന്നു അതിനാൽ ഞാൻ ഇത് ഇതുപോലെ സൂചിപ്പിക്കും ഇത് ഒരു വലിയ പ്രദേശത്ത് ചുറ്റപ്പെട്ടിരുന്നു ഞാൻ ഈ അതിർത്തിയെ S∞ ഉറവിടം എന്ന് വിളിക്കുന്നു കൂടാതെ ചില നിലവിലെ ഉറവിടം ഇവിടെയുണ്ട് J ഇതായിരുന്നു എന്റെ വോളിയം 1 ഇത് എന്റെ വോളിയം 2 ആയിരുന്നു ഈ വോള്യം 2 എനിക്ക് അറിയാവുന്ന ചില വസ്തുവാണ് അതിനാൽ നമുക്ക് ശരിയായി ലഭിച്ച രണ്ട് സമവാക്യങ്ങളായിരുന്നു ഇവ എല്ലാവരും ഈ സമവാക്യങ്ങൾ ഓർക്കുന്നു അതിനാൽ നിങ്ങളുടെ മെമ്മറി പുതുക്കാൻ എന്താണ് ഇതോ ഇതോ ഒന്നുകിൽ r′ അതെ എന്നതിന്റെ ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ സമവാക്യ സ്ഥാനം സൃഷ്ടിക്കുന്നതിന് എന്ത് മാറ്റമുണ്ടായി പക്ഷേ എനിക്ക് രണ്ട് വ്യത്യസ്ത വശങ്ങൾ ലഭിക്കുന്നത് എന്തുകൊണ്ട് വിദ്യാർത്ഥി കാരണം ഡെൽറ്റ ഡെൽറ്റ ഫംഗ്ഷന്റെ സ്ഥാനം കാരണം ഡെൽറ്റ ഫംഗ്ഷൻ സംയോജന മേഖലയിലല്ലെങ്കിൽ എനിക്ക് ഒരു 0 ലഭിച്ചു അത് r′ ∈ V 2 വരുമ്പോൾ r′ ∈ V 1 ആയിരിക്കുമ്പോൾ ഡെൽറ്റ ഫംഗ്ഷൻ ϕ1 ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും എനിക്ക് ϕ1r′ ലഭിക്കുകയും ചെയ്തു അതുപോലെ റീജിയൻ 2 ന് വീണ്ടും നിങ്ങളുടെ മെമ്മറി പുതുക്കാൻ വേണ്ടി ഒന്നാം സമവാക്യത്തിൽ ഒരു മൈനസ് ചിഹ്നവും രണ്ടാം സമവാക്യത്തിൽ പ്ലസ് ചിഹ്നവും ഉള്ളത് എന്തുകൊണ്ട് nˆ ശരിയാണ് nˆ ന്റെ ദിശ ഇങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചിരുന്നു അതിനാൽ ബാഹ്യ ഉപരിതലത്തിന് മൈനസ് ചിഹ്ന വ്യത്യാസം കാരണം V1 V2 എന്നിവയ്ക്ക് ഈ രീതിയിൽ ഔട്ട്വേർഡ് നോർമൽ ഉറപ്പിച്ചിരിക്കുന്നു സംഭവ ഫീൽഡ് നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റെന്തെങ്കിലും വ്യത്യാസം ഒരു സംഭവ ഫീൽഡ് ഉള്ളത് വിദ്യാർത്ഥി മേഖല 1 റീജിയൻ 1 ൽ V 1 അതുകൊണ്ടാണ് ഇവിടെയുള്ളത് എന്നാൽ 2 ആം സമവാക്യത്തിൽ അത് ശരിയല്ല അതിനാൽ ഈ സമവാക്യങ്ങൾക്ക് നമ്മൾ പേരുകൾ പോലും നൽകിയിട്ടുണ്ടെന്ന് എല്ലാവരും ഓർക്കുന്നു അപ്പോൾ ഇരുവശത്തുമുള്ള ആദ്യത്തെ സമവാക്യം നമ്മൾ അതിനെ എന്താണ് വിളിച്ചത് വിദ്യാർത്ഥി ഹ്യൂഗൻസ് തത്വം ഹ്യൂഗൻസ് തത്വം ഇവിടെയും ഇതും നമ്മൾ വിളിച്ചു വിദ്യാർത്ഥി എസ്റ്റിൻഷൻ എസ്റ്റിൻഷൻ സിദ്ധാന്തം നമുക്ക് കാണിക്കാം അതിനാൽ ഇത് നിങ്ങൾക്കുള്ള ഒരു പുനരവലോകനം മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ സമവാക്യങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്തത് നമ്മൾ പോയി g എങ്ങനെ കണക്കാക്കാം എന്നതിനെക്കുറിച്ച് ഒരു നീണ്ട ചർച്ച നടത്തി നമ്മൾ സംയോജനവും നോക്കി കാരണം ഇവിടെ ഒരു സംയോജനം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും സംയോജനത്തെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ടിവരും അതിനാൽ അതായിരുന്നു പൊതു സജ്ജീകരണം ∇ϕ1 ഉം ϕ1 ഉം സ്പെയ്സ്ൽ എവിടെയും മൂല്യനിർണ്ണയം ചെയ്യപ്പെടുന്നില്ല കാഴ്ചയിൽ മാത്രമേ ഇത് ലൈൻ ഇന്റഗ്രൽ അല്ലെങ്കിൽ കോണ്ടൂർ ഇന്റഗ്രൽ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനാൽ ഇവ ഉപരിതലം S ൽ മാത്രമേ വിലയിരുത്തപ്പെടുന്നുള്ളൂ പിന്നെ ϕ1 ഉം ϕ2 ഉം ഒന്നായിരിക്കണമെന്ന് പറയാൻ നമ്മൾ എന്ത് ബന്ധമാണ് ഉപയോഗിച്ചത് അതിനാൽ ഇവിടെ ഒരു ϕ1 ഉണ്ട് ഇവിടെ ഒരു ϕ2 ഉണ്ട് ടാൻജൻഷ്യൽ സമവാക്യങ്ങളുടെ തുടർച്ചയായതിനാൽ അതിർത്തിയിലെ 2 ഒന്നുതന്നെയാണ് അതിനാൽ ടാൻജെൻഷ്യലിന്റെ തുടർച്ച എനിക്ക് ϕ1 ϕ2 തരും Htan എന്നതിന്റെ തുടർച്ചയും ∇ϕ1 ∇ϕ2 ഇരുവശത്തും തുല്യമാണ് അതിനാൽ സമവാക്യങ്ങളിലും ϕ ഒരേ പോലെയുള്ള ∇ϕ nˆ ഒരു പുതിയ ചിഹ്നമാണ് ഞാൻ എഴുതുന്നതെന്ന് തിരിച്ചറിയുന്നു ഞാൻ ചെയ്തത് എസ്റ്റിൻഷൻ സിദ്ധാന്തം മാത്രമാണ് ഞാൻ ശരിയായി തിരഞ്ഞെടുത്തത് അതിനാൽ ഇപ്പോൾ ഈ സമവാക്യങ്ങളിലെ ഇവയിൽ എല്ലാം അറിയാവുന്നത് എന്താണെന്ന് ഈ സമവാക്യങ്ങൾ നോക്കിക്കൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ എന്താണ് അറിയുന്നത് ഞാൻ ഇടതുവശത്ത് നിന്ന് ആരംഭിക്കുന്നു എനിക്കറിയാമോ g1 വിദ്യാർത്ഥി അതെ അതെ വോളിയം 1 ന്റെ മീഡിയത്തിനായുള്ള അതിന്റെ ഗ്രീൻസ് ഫംഗ്ഷൻ എനിക്കറിയാം g1 അറിയപ്പെടുന്നു g2 അതിനാൽ എനിക്കും അറിയാം phis അറിയാമോ എനിക്ക് ഫൈസ് phis അറിയില്ല വിദ്യാർത്ഥി ശരി അതാണ് എനിക്ക് കണ്ടെത്തേണ്ടത് പക്ഷേ ഇതിന്റെ വലതു വശം എനിക്കറിയാം സംഭവ ഫീൽഡ് ϕi അറിയപ്പെടുന്നു പിന്നെ എന്താണ് ഇപ്പോൾ അറിയാത്തത് ഞാൻ എന്തിനുവേണ്ടിയാണ് പരിഹരിക്കേണ്ടത് ϕ1 തീർച്ചയായും അജ്ഞാതമാണ് nˆ കാരണം nˆ അറിയാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാൽ ഒരു സ്കെയിലറിനോ വെക്ടറിനോ എന്താണ് പരിഹരിക്കാൻ എളുപ്പമുള്ളത് വിദ്യാർത്ഥി സ്കെലാർ സ്കെയിലർ എനിക്ക് nˆ അറിയാമെങ്കിൽ ∇ϕ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിനുപകരം ഒരു വെക്റ്റർ ഏതാണെന്നത് പുതിയ അജ്ഞാതമായ ∇ϕ nˆ ശരിയാക്കാം അതിനാൽ ∇ϕ ഇവ എന്റെ 2 അജ്ഞാതങ്ങളാണ് അതിനാൽ എനിക്ക് 2 വേരിയബിളുകളിൽ 2 സെറ്റ് സമവാക്യങ്ങളുണ്ട് ഈ 2 സമവാക്യങ്ങൾ പരിഹരിക്കുക എന്നതാണ് ലക്ഷ്യം അതിനാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇപ്പോൾ നമുക്ക് നമ്മുടെ മൊമെന്റ്സ് സമീപനം ഉപയോഗിക്കാം ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈ സമവാക്യങ്ങളിൽ സംയോജനത്തിന്റെ വേരിയബിൾ എന്താണ് ഇത് r അല്ലെങ്കിൽ r′ വിദ്യാർത്ഥി ആർ r അൺ പ്രൈംഡ് കോർഡിനേറ്റുകൾ അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അതിനാൽ അതിന്റെ അൺ പ്രൈമഡ് പ്രധാനമാണ് അതിനാൽ ഈ സമവാക്യങ്ങളിൽ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട് അത് നമ്മുടെ മുഖത്തേക്ക് തുറിച്ചുനോക്കുന്നു അതായത് ഞാൻ R′ ക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല അതിനാൽ r′ ഞാൻ r പ്രൈം വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഇന്റഗ്രൽ എനിക്ക് യഥാർത്ഥത്തിൽ മൂല്യനിർണ്ണയം ചെയ്യാൻ കഴിയില്ല r പ്രൈം എവിടെയാണ് ഞാൻ പറഞ്ഞതെല്ലാം എസ്റ്റിൻഷൻ സിദ്ധാന്തം പറയുന്നത് r′ ∈ V 2 ഉം r′ ∈ V 1 ഉം ആണ് അതിനാൽ നമുക്ക് ഇത് നോക്കാം ഇത് വീണ്ടും വരയ്ക്കാം അതിനാൽ 1 ആം സമവാക്യത്തിന് ആദ്യത്തെ 1 ആം സമവാക്യം r′ ∈ V2 എന്ന് പറയുന്നു അപ്പോൾ ഇവിടെയാണ് r′ സമവാക്യം 1 ന് ശരിയായിരിക്കേണ്ടത് ഇവിടെയാണ് r′ സമവാക്യത്തിന് ശരിയായിരിക്കേണ്ടത് 2 ശരി ഈ കാര്യം മറക്കുക എന്നത് വളരെ സാധാരണമായ ഒരു തെറ്റാണ് നമ്മൾ r′ തെറ്റായ സ്ഥലത്ത് ഇട്ടാൽ നിങ്ങൾ ഇത് മറന്നാൽ വലതുഭാഗം ശരിയായി മാറും അതിനാൽ മനസ്സിൽ സൂക്ഷിക്കേണ്ട 2 നിയന്ത്രണങ്ങൾ ഇവയാണ് എന്നാൽ അല്ലാതെ r′ എന്റെ കൈയിലാണ് അതിനാൽ ഇപ്പോൾ ചോദ്യം ഇതാണ് r പ്രൈം ആദ്യ കേസിൽ V2 ലും അടുത്ത കേസിൽ V1 ലും ആയിരിക്കണം എന്നാൽ ഞാൻ അവ കൃത്യമായി എവിടെ സ്ഥാപിക്കണം നിമിഷങ്ങളുടെ രീതി പോലെയുള്ള ഒന്ന് ഉപയോഗിച്ച് ഇത് പരിഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും ലളിതമായ നിമിഷ രീതി സ്വീകരിക്കും ഏറ്റവും ലളിതമായ തരം ഏതാണ് വിദ്യാർത്ഥി പൾസ് ബേസിസ് വിദ്യാർത്ഥി ഡെൽറ്റ ടെസ്റ്റിംഗ് ഡെൽറ്റ ടെസ്റ്റിംഗ് നമ്മൾ ഇത് പ്രോട്ടോടൈപ്പായി നിലനിർത്തും അതിനാൽ ഞാൻ ടെസ്റ്റിംഗ് ലൊക്കേഷനായി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്റെ r′ തിരഞ്ഞെടുക്കുന്ന സ്ഥലവുമായി പൊരുത്തപ്പെടുന്നതാണ് അപ്പോൾ എനിക്ക് എന്റെ r′ എവിടെ തിരഞ്ഞെടുക്കാനാകും നമുക്ക് ആരംഭിക്കാം നമുക്ക് ഒരു പടി പിന്നോട്ട് പോകാം അടിസ്ഥാന ഫംഗ്ഷനുകളിൽ നിന്ന് ആരംഭിക്കാം നമ്മൾ ടെസ്റ്റിംഗിലേക്ക് വരുന്നതുപോലെ അടിസ്ഥാന ഫംഗ്ഷനുകളിൽ നിന്ന് ആരംഭിക്കാം അതിനാൽ ϕ ∇ϕ nˆ എന്നിവയാണ് എന്റെ അജ്ഞാതമായ പ്രവർത്തനങ്ങൾ nˆ ന് ഇത് ഇപ്പോൾ എന്റെ അജ്ഞാത ഫംഗ്ഷനാണെന്ന് എനിക്ക് പറയാൻ കഴിയും അത് അറിയപ്പെടുന്ന അടിസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എഴുതും അറിയപ്പെടുന്ന അടിസ്ഥാനത്തിൽ ഞാൻ പൾസ് ബേസിസ് pn എന്ന് വിളിക്കാം അതിനാൽ കോഫിഫിഷ്യന്റ് എനിക്ക് എന്ന് എഴുതാം സമാനമായി മറ്റൊരു വേരിയബിളിന് അപ്പോൾ ഞാൻ എന്താണ് ചെയ്തത് ഞാൻ വെട്ടിയിരിക്കുന്നു ഓരോ സെഗ്മെന്റിനും ഞാൻ ഇത് n സെഗ്മെന്റുകളായി മുറിച്ചിട്ടുണ്ട് അത് ശരിയാണെന്ന് നിർണ്ണയിക്കാൻ പോകുന്ന ഒരു കോഫിഫിഷ്യന്റ് ഉള്ള 1 പൾസ് ഞാൻ അനുമാനിച്ചു അതിനാൽ പുതിയത് അജ്ഞാതമായതിനാൽ ϕ ഞാൻ അവയെ bn s ആയും ∇ϕ nˆ ഞാൻ അവയെ ഒരു s ആയും ആക്കി അതിനാൽ പൾസ് ബേസിസ് അടിസ്ഥാന പ്രവർത്തനം വ്യക്തമാണ് അടുത്തതായി ടെസ്റ്റിംഗ് ഫംഗ്ഷന്റെ സ്ഥാനം വരുന്നു ടെസ്റ്റിംഗ് പോയിന്റ് ഒരു ഡെൽറ്റ പരിശോധനയാണ് അതിനാൽ എന്റെ ടെസ്റ്റിംഗ് ഫംഗ്ഷൻ എവിടെ സ്ഥാപിക്കണമെന്ന് എനിക്ക് പോയിന്റ് എടുക്കേണ്ടതുണ്ട് അതിനാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ എന്തുചെയ്യും എന്നത് വളരെ സങ്കീർണ്ണമല്ലെന്ന് ഞാൻ അർത്ഥമാക്കുന്നു V2 എവിടെയും ആദ്യ സമവാക്യത്തിനുള്ള r′ പരിമിതി എന്താണെന്ന് നോക്കുക അതിനാൽ നമുക്ക് ഇവിടെ ഒരു കേസ് എടുക്കാം ഇത് എന്റെ V2 ആണ് കൂടാതെ ഇവിടെ അല്ലെങ്കിൽ ഇതുപോലെ വിവിധ n സെഗ്മെന്റുകൾ ഉണ്ട് ഞാൻ ഈ പോയിന്റുകൾ തിരഞ്ഞെടുക്കുന്നത് എന്റേതാണ് എനിക്ക് ഇവ തിരഞ്ഞെടുക്കാനാകുമോ അതിനാൽ 1 2 3 4 5 6 7 സെഗ്മെന്റുകൾ എത്രയാണ് അതിനാൽ ഞാൻ എത്ര പോയിന്റുകൾ പരിശോധിക്കണം 7 പോയിന്റ് ഒന്നാം സമവാക്യം എനിക്ക് 7 തരും അടുത്തതിൽ എനിക്ക് മറ്റൊരു 7 നൽകും അതിനാൽ എനിക്ക് 14 ലഭിക്കും എനിക്ക് എന്റെ എല്ലാ 14 വേരിയബിളുകളും ലഭിക്കും ഈ സാഹചര്യത്തിൽ 14 വേരിയബിളുകൾ ഉണ്ട് ഓരോ സെഗ്മെന്റിലും ഒരു an ഉം bn ഉം ഉണ്ട് അത് എനിക്ക് ശരിയാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ എനിക്ക് ഈ 7 പോയിന്റുകൾ ഇവിടെ എവിടെനിന്നും സമവാക്യം 1 ന് വേണ്ടിയുള്ള ഈ പോയിന്റുകൾ തിരഞ്ഞെടുക്കാം എനിക്ക് എന്റെ പോയിന്റുകൾ ഇതുപോലെ തിരഞ്ഞെടുക്കാമോ അതെ സാങ്കേതികമായി ഇതിൽ തെറ്റൊന്നുമില്ല എന്തുകൊണ്ടെന്നാൽ ഈ പോയിന്റുകൾ ഓരോന്നായി ഇവിടെ ചേർത്താൽ അവയിലൂടെ പോയാൽ എനിക്ക് എത്ര സമവാക്യങ്ങൾ ലഭിക്കും എനിക്ക് 7 സമവാക്യങ്ങൾ ലഭിക്കും എത്ര വേരിയബിളുകളിൽ ഒന്നാം സമവാക്യം അതിൽ എത്ര വേരിയബിളുകൾ ഉണ്ട് വിദ്യാർത്ഥി 14 14 വേരിയബിളുകൾ അതിനാൽ എനിക്ക് 7 സമവാക്യങ്ങൾ ലഭിച്ചു കാരണം ഞാൻ 7 വ്യത്യസ്ത പോയിന്റുകളിൽ പരീക്ഷിച്ചതിനാൽ എനിക്ക് 14 വേരിയബിളുകളിൽ മറ്റൊന്ന് ലഭിച്ചു അതിനാൽ എനിക്ക് 14 വേരിയബിളുകൾ 7 സമവാക്യങ്ങൾ ലഭിച്ചു അപ്പോൾ എന്നാൽ ഞാൻ വിവര പ്രശ്നത്തിന്റെ പകുതി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ മറ്റേ പകുതി സമവാക്യം 2 ആണ് സമവാക്യം 2 ഞാൻ എത്ര തവണ പരിശോധിക്കണം വീണ്ടും 7 തവണ എനിക്ക് 14 വേരിയബിളുകളിൽ 14 സമവാക്യങ്ങൾ ലഭിക്കും അതിനാൽ എനിക്ക് ഈ പോയിന്റുകൾ എവിടെ തിരഞ്ഞെടുക്കാനാകും അവ വോളിയത്തിന്റേതായിരിക്കണം വിദ്യാർത്ഥി 1 1 അതിനാൽ എനിക്ക് ഇതുപോലുള്ള ചില പോയിന്റുകൾ ശരിയായി തിരഞ്ഞെടുക്കാം അതിനാൽ 1 2 3 4 5 6 7 7 പോയിന്റുകൾ ഞാൻ തിരഞ്ഞെടുത്തു ഈ 7 പോയിന്റുകളുള്ള രണ്ടാമത്തെ സമവാക്യം ഞാൻ പരീക്ഷിക്കുമ്പോൾ എനിക്ക് ബാക്കിയുള്ള 7 സമവാക്യങ്ങളും അതേ 14 വേരിയബിളുകളും ശരിയാകും കാരണം ഗ്രാഡ് ഫൈ രണ്ടിടത്തും ദൃശ്യമാകുന്നത് രണ്ട് സമവാക്യങ്ങളിലും ഫൈ ദൃശ്യമാകുന്നത് അതിനാൽ എനിക്ക് 14 വേരിയബിളുകളിൽ 14 സമവാക്യങ്ങൾ ലഭിക്കാൻ പോകുന്നു എനിക്ക് അത് പരിഹരിക്കാൻ കഴിയും എനിക്ക് എന്റെ ഉത്തരം ലഭിക്കും ഈ സമീപനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ഒരു പ്രശ്നവുമില്ല ഒരേയൊരു കാര്യം ഈ ടെസ്റ്റിംഗ് പോയിന്റുകളുടെ സ്ഥാനം അൽപ്പം ഏകപക്ഷീയമാണെന്ന് തോന്നുന്നു ഞാൻ അവ എവിടെയും ശരിയായി തിരഞ്ഞെടുക്കുന്നു അതിനാൽ V1 V2 എന്നിവയിൽ ഞാൻ ഈ പോയിന്റുകൾ ഏകപക്ഷീയമായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സൈദ്ധാന്തികമായി ഇത് ശരിയാണെന്നും അങ്ങനെ ചെയ്യുന്നതിനെ വിപുലീകൃത ബൌണ്ടറി അവസ്ഥ രീതി എന്നും വിളിക്കുന്നു വിപുലമായ അതിർത്തി വ്യവസ്ഥ രീതി എന്തുകൊണ്ട് നീട്ടി കാരണം അത് അതിർത്തിയിൽ നിന്ന് അകലെയാണ് അതിനാൽ വിപുലീകരിച്ച അതിർത്തി വ്യവസ്ഥ രീതി എന്നാൽ അത് മാറുന്നതുപോലെ ഞാൻ ഇത് മനസ്സിലാക്കാൻ പോകുന്നില്ല പക്ഷേ ഞാൻ നിങ്ങൾക്ക് വിവരങ്ങൾ നൽകും നിങ്ങൾ ഈ പോയിന്റുകൾ അതിർത്തിയിൽ നിന്ന് ഇതുപോലെ ക്രമരഹിതമായി തിരഞ്ഞെടുത്താൽ പരിഹാരത്തിലെ പിശക് കൂടുതലാണ് അതിനാൽ അത് തിരഞ്ഞെടുക്കുന്നതിനുള്ള മറ്റൊരു മാർഗം എന്തായിരിക്കാം ഈ പോയിന്റുകൾ ഉപരിതലത്തോട് വളരെ അടുത്ത് പോകുന്നതിന് ഞാൻ നയിച്ചു ഞാൻ ആ വയർ ചെയ്ത ആദ്യത്തെ സമഗ്ര സമവാക്യത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞുനോക്കുകയാണെങ്കിൽ ഓരോ സെഗ്മെന്റിന്റെയും മധ്യഭാഗത്ത് എന്റെ ടെസ്റ്റിംഗ് പോയിന്റുകൾ എവിടെയാണ് ഞാൻ തിരഞ്ഞെടുത്തത് എനിക്ക് ഇവിടെ ഓരോ സെഗ്മെന്റിന്റെയും മധ്യഭാഗം ചെയ്യാൻ കഴിയുമോ അതെ എന്ന് ആരും പറയുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള ഒരു വിഭാഗമാണ് എനിക്ക് എന്റെ തിരഞ്ഞെടുക്കാൻ കഴിയുമോ വിദ്യാർത്ഥി ഇല്ല പക്ഷേ വിദ്യാർത്ഥി അതും തരും അതിരുകൾ എനിക്ക് അറിയാമെങ്കിൽ nˆ എനിക്കറിയാം അതിനാൽ ഞാൻ ഈ നിയന്ത്രണങ്ങൾ അനുസരിക്കുന്നിടത്തോളം കാലം എനിക്ക് എവിടെയും എന്റെ സ്ഥാനം തിരഞ്ഞെടുക്കാനാകും എനിക്ക് അതിരുകൾ അറിയാം എനിക്ക് എന്റെ പോയിന്റുകൾ തിരഞ്ഞെടുക്കാനാകുമോ ഈ വ്യക്തിയെ ഇങ്ങോട്ട് മാറ്റാൻ കഴിയും അതിരിൽ പോലും തൊടാത്തിടത്തോളം എനിക്ക് അത് നീക്കാൻ കഴിയും അതിരുകൾ V1 V2 എന്നിവയുടേത് പോലെയുള്ള ഒരു പ്രത്യേക വസ്തുവാണ് അതിനാൽ ഞാൻ അതിർത്തി കടക്കാത്തിടത്തോളം കാലം ഞാൻ എസ്റ്റിൻഷൻ സിദ്ധാന്തത്തിന്റെ വ്യവസ്ഥ ലംഘിക്കുന്നില്ല അതിനാൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഇവിടെയുള്ള സെഗ്മെന്റിൽ ഒന്ന് സൂം ചെയ്യാൻ അനുവദിക്കുക എന്നതാണ് വിദ്യാർത്ഥി ഇത് താരതമ്യേന ഒരു വിവരണമാണ് ans ഈ ചിത്രത്തിൽ ans എന്താണ് എന്നതാണ് ചോദ്യം നമുക്ക് ഒരിക്കൽ എടുക്കാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ n സെഗ്മെന്റുകൾ ഉണ്ട് അതിനാൽ ഒരു ഈ അതിർത്തിയിൽ n സെഗ്മെന്റുകൾ ഉണ്ട് ഉദാഹരണത്തിന് a1 ആദ്യ പൾസ് ബേസിസ് ഫംഗ്ഷന്റെ വ്യാപ്തി ആയിരിക്കും a2 ∇ϕ nˆ ന് അനുയോജ്യമായ രണ്ടാമത്തെ പൾസ് ഫംഗ്ഷന്റെ വ്യാപ്തി ആയിരിക്കും ∇ϕ nˆ ഒരു സ്കെയിലർ ആണ് ഈ അതിർത്തി വലതുവശത്ത് വ്യത്യാസപ്പെടുന്ന ഒരു സ്കെയിലർ ഫംഗ്ഷൻ ഇത് 7 പൾസുകൾ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഫംഗ്ഷൻ പ്രകടിപ്പിക്കുന്നത് അതിനാൽ a1 എന്നത് ആദ്യത്തെ പൾസിന്റെ വ്യാപ്തിയാണ് ഇത് അൽപ്പം ഇതുപോലെയാണ് എനിക്ക് ചില ഫംഗ്ഷനുകൾ ഉണ്ട് ∇ϕ nˆ ഇങ്ങനെയാണ് കാണപ്പെടുന്നത് ആരംഭ അവസാന പോയിന്റ് ഇതാണ് വ്യക്തമായും ഞാൻ ഒരു സർക്കിളിൽ പോകുന്നതിനാൽ അത് ശരിയാണ് അതിനാൽ സാങ്കേതികമായി ഞാൻ ഇത് ഇങ്ങനെ വരയ്ക്കരുത് അതിനാൽ ഇതുപോലെ എന്തെങ്കിലും പറയാം ഈ പോയിന്റും ഈ പോയിന്റും ഒന്നുതന്നെയാണ് അതിനാൽ ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ അത് ഇതുപോലെ വെട്ടിമാറ്റുകയാണ് അതാണ് എന്റെ ∇ϕ nˆ എന്നത് തുടർച്ചയായ വക്രമാണ് ഈ പൾസുകൾ ഞാൻ കൂടുതൽ കൂടുതൽ പൾസുകൾ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കൂടുതൽ മികച്ചതും മികച്ചതുമായ ഏകദേശം കണക്കാക്കാൻ കഴിയും ഇതാണ് നമ്മൾ ഇതിനകം കണ്ട പഴയ കാര്യങ്ങൾ അതിനാൽ ഇപ്പോൾ ഈ ഒരു സെഗ്മെന്റിലേക്ക് മടങ്ങുമ്പോൾ ഇവിടെയുള്ള ആദ്യത്തെ പോയിന്റ് എനിക്ക് ഇത് സെഗ്മെന്റിന്റെ മധ്യബിന്ദുവിനോട് വളരെ അടുത്ത് ഒരു പരിധിയിലേക്ക് നീക്കാൻ കഴിയും കൂടാതെ രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്നുള്ള ടെസ്റ്റിംഗ് പോയിന്റിലേക്ക് എനിക്ക് അത് മധ്യഭാഗത്തേക്ക് വളരെ അടുത്ത് നീക്കാൻ കഴിയും സെഗ്മെന്റ് വീണ്ടും എനിക്ക് ഒരു പരിധി ശരിയാക്കാം അതിനാൽ ഇത് ഉപരിതല S ആണെന്ന് എനിക്ക് ചിന്തിക്കാം ഒരു സാങ്കൽപ്പിക പ്രതലം ഇവിടെ ഇതുപോലെ വരച്ച പച്ചയും ഇവിടെ വരച്ച സാങ്കൽപ്പിക പ്രതലവും ഉപയോഗിക്കട്ടെ അതിനാൽ ഉള്ളിലുള്ളതിനെ എനിക്ക് S− എന്നും പുറത്തുള്ളതിനെ S എന്നും വിളിക്കാം എസ്റ്റിൻഷൻ സിദ്ധാന്തത്തിന്റെ വ്യവസ്ഥകൾ നമ്മൾ അനുസരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് പ്ലസ് മൈനസ് ഞാൻ S− ൽ ഉള്ളിടത്തോളം ഈ അവസ്ഥ സാധുവാണ് കാരണം അത് V2 ൽ ശരിയാണ് അതിനാൽ ഞാൻ ഈ പോയിന്റുകൾ അടിസ്ഥാനപരമായി സെഗ്മെന്റുകളുടെ മധ്യബിന്ദുവായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നം എങ്ങനെ ശരിയായി പരിഹരിക്കാമെന്ന് വ്യക്തമാക്കുന്നതിന് എനിക്ക് വ്യക്തമായ ഒരു മാർഗമുണ്ട് ഈ അടിസ്ഥാന ഫംഗ്ഷനുകൾ 1 ഉം 2 ഉം തിരഞ്ഞെടുക്കുക ഇന്റഗ്രൽ സമവാക്യങ്ങളിലെ ആദ്യ ഉദാഹരണത്തിൽ നമ്മൾ ചെയ്തത് പോലെ തന്നെ ഈ ഓരോ സെഗ്മെന്റിന്റെയും മധ്യ പോയിന്റുകളായി ടെസ്റ്റിംഗ് പോയിന്റുകൾ തിരഞ്ഞെടുക്കുക അതിനാൽ അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന തന്ത്രം നമ്മൾ അത് പരിഹരിക്കുമ്പോൾ അതിനെ വിളിക്കുന്നു അതിനെ അതിർവരമ്പിന്റെ സമഗ്ര രീതി എന്ന് വിളിക്കുന്നു അതിനാൽ ഇതിനെ ബൌണ്ടറി ഇന്റഗ്രൽ രീതി എന്ന് വിളിക്കും അതിനാൽ S− എന്നത് r′ ∈ V2 നും S എന്നത് r′ ∈ V1 നും ഉള്ളതാണ് അതാണ് നമ്മൾ ചെയ്തത് ഇപ്പോൾ ഈ S ഉം S യും ഞാൻ എന്തിനാണ് നിർവചിക്കേണ്ടത് എന്ന് ഞാൻ പോകുന്തോറും വ്യക്തമാകും S S എന്നിവയെക്കുറിച്ച് നിങ്ങളോട് പറയുന്നതിന് എന്തിനാണ് മധ്യഭാഗം തിരഞ്ഞെടുക്കുക എന്ന് ഞാൻ പറഞ്ഞിരിക്കാം അതിനാൽ മുന്നോട്ട് പോകുമ്പോൾ അത് വ്യക്തമാകും അപ്പോൾ നിമിഷങ്ങളുടെ രീതിയിൽ പരിഹരിക്കാൻ ഈ സമവാക്യത്തിൽ മറ്റെന്താണ് എന്ത് സംഭവിക്കും ഈ സമവാക്യത്തിൽ ഞാൻ ഇവനെയും ഇയാളെയും ϕ ∇ϕ nˆ എന്നിവ മാറ്റിസ്ഥാപിക്കും അതിനാൽ ഏത് തരത്തിലുള്ള നിബന്ധനകളാണ് ഞാൻ വിലയിരുത്തേണ്ടത് ചില സെഗ്മെന്റിന് മുകളിലുള്ള g1 ന്റെ ഇന്റഗ്രൽ ∇g1 nˆ ന്റെ ഇന്റഗ്രൽ എന്നിവ എനിക്ക് വിലയിരുത്തേണ്ടി വരും ഇവയാണ് 2 ഫംഗ്ഷനുകൾ നമ്മൾ നിമിഷങ്ങളുടെ രീതി ചെയ്യുമ്പോൾ അവയുടെ ഇന്റഗ്രൽ ഞാൻ ശരിയായി വിലയിരുത്തേണ്ടതുണ്ട് മൊമെന്റുകളുടെ രീതിയുടെ ഭാഷയിൽ നമ്മൾ ഇന്നലെ ഓപ്പറേറ്ററുടെ അടിസ്ഥാനത്തിൽ Amn മാട്രിക്സ് കോഫിഫിഷ്യന്റ് Amn നെ നോക്കി അതാണ് കപ്ലിംഗ് കോഫിഫിഷ്യന്റ് അതിനാൽ ഞാൻ വിലയിരുത്തേണ്ടതുണ്ട് അതിനാൽ നമുക്ക് അങ്ങനെ ചെയ്യാം എനിക്ക് വിഷമിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് നമുക്ക് ഒരു സെഗ്മെന്റ് എടുക്കാം അതിനെ വിളിക്കാം സെഗ്മെന്റ് i ഞാൻ ∫g1rr′dl വിലയിരുത്തേണ്ടതുണ്ട് ഞാൻ അതിനെ dl എന്ന് വിളിക്കുന്നു കാരണം അത് വളഞ്ഞിരിക്കാം ∫∇g1rr′ nˆdl അതാണ് എനിക്ക് വിലയിരുത്തേണ്ടത് വിദ്യാർത്ഥി ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സെഗ്മെന്റ് എന്നാൽ ഇതുപോലുള്ള ഒരു സെഗ്മെന്റ് എന്നാണ് അർത്ഥമാക്കുന്നത് അത്തരം എല്ലാ സെഗ്മെന്റുകളിലും ചിലത് ഞാൻ മൊത്തത്തിൽ നിരവധി സെഗ്മെന്റുകളായി വിഭജിച്ചു ഓരോ സെഗ്മെന്റിലും ഈ സമഗ്രത ഞാൻ വിലയിരുത്തേണ്ടതുണ്ട് വിദ്യാർത്ഥി സർ അടിസ്ഥാനപരമായി നമുക്ക് ഭാഗമില്ല സമയം കാണുക 1906 സെഗ്മെന്റ് അതെ കാരണം എന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ പൾസ് ഫംഗ്ഷനുകളാണ് ഈ പൾസ് ഫംഗ്ഷൻ പൂജ്യമല്ല ഒരു സെഗ്മെന്റ് വലതുവശത്ത് മാത്രം അതിനാൽ ഞാൻ ഇന്റഗ്രൽ മൂല്യനിർണ്ണയം നടത്താൻ പോകുമ്പോൾ ഓരോ സെഗ്മെന്റിന്റെയും ഈ ഇന്റഗ്രേഷൻ ക്രമം ഓരോന്നായി ശരിയാക്കണം അത് ഞാൻ സബ് ഡൊമെയ്ൻ ബേസ് ഫംഗ്ഷനുകൾ ഉപയോഗിക്കുന്നതിനാലാണ് അതിനാൽ സെഗ്മെന്റിന്റെ ഒരു ഭാഗത്ത് മാത്രം അവ പൂജ്യമല്ല g1 g2 എന്നിവയ്ക്കായി ഞാൻ ഇതും ഇതും വിലയിരുത്തേണ്ടവയാണ് ഈ ഇന്റഗ്രലുകൾ നമുക്ക് ഉണ്ടോ ഈ ഇന്റഗ്രലുകൾ വിലയിരുത്താൻ സഹായിക്കുന്ന എന്തെങ്കിലും നമ്മൾ ഇതിനകം പഠിച്ചിട്ടുണ്ടോ സംഖ്യാ സംയോജനം സംഖ്യാ സംയോജനത്തെക്കുറിച്ചുള്ള ഒരു മൊഡ്യൂൾ നമ്മൾ ഇതിനകം കണ്ടു സംഖ്യാ സംയോജനം ആവശ്യമായി വരുന്നത് ഈ ഫംഗ്ഷനുകൾ ഹാങ്കെൽ ഫംഗ്ഷനുകളും മറ്റും ഉള്ളതിനാൽ അവ പലപ്പോഴും വിശകലന സംയോജനമല്ല അതിനാൽ ഞാൻ ഇവയെ സംഖ്യാപരമായി വിലയിരുത്തേണ്ടതുണ്ട് ഈ ശരിയായ ക്വാഡ്രേച്ചർ വിലയിരുത്തുന്നതിന് ക്വാഡ്രേച്ചർ നിയമങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഞാൻ ഉപയോഗിക്കും എന്താണ് നേട്ടമെന്ന് ഓർക്കുക ചില പോയിന്റുകളിൽ അതിന്റെ മൂല്യങ്ങൾ ഒഴികെ ഫംഗ്ഷനെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയേണ്ടതില്ല പ്രീകംപ്യൂട്ടഡ് വെയ്റ്റുകൾ കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് ഇന്റഗ്രൽ ലഭിക്കും അതിനാൽ അത് നമ്മുടെ തന്ത്രമായിരിക്കും